മൂന്നാമത്തെ പ്രഭാഷണം മൈക്രോവേവ് ടെക്നോളജിയിലെ അൺനോൺ ഇംപെഡൻസ് മെഷർമെന്റിനെ കുറിച്ചാണ് അടിസ്ഥാനപരമായ 3 മെഷെർമെന്റ്സ് ഉണ്ട് കാരണം പവർ ഒരു അടിസ്ഥാന ക്വാണ്ടിറ്റി ആണ് എസി സിഗ്നൽ അടിസ്ഥാന ക്വാണ്ടിറ്റിയായ പവർനെ വിശദീകരിക്കുന്നു അതിനാൽ പവർ മെഷർമെന്റ് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫ്രീക്വൻസി മെഷർമെന്റ് എങ്ങനെയെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇംപെഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇംപെഡൻസ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കുറഞ്ഞ ഫ്രീക്വൻസിയും ഉയർന്ന ഫ്രീക്വൻസിയും നൽകുന്നു ഈ ഇംപെഡൻസ് ഒരു നെറ്റ്വർക്കിന്റെ സവിശേഷതയാണ് ഇത് നെറ്റ്വർക്കിലാണുള്ളത് വോൾട്ടേജ് എക്സൈറ്റേഷൻ അല്ലെങ്കിൽ കറന്റ് റെസ്പോൺസ് മുതലായവയവ അതിന് സവിശേഷത നല്കുന്നില്ല പക്ഷേ അതിന്റെ റേഷിയോ അതിന്റെ സവിശേഷത നൽകുന്നു അതിനർത്ഥം നിങ്ങളുടെ റെസ്പോൺസ് എന്തുമാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സൈറ്റേഷൻ എന്തുമാകട്ടെ നെറ്റ്വർക്കിന്റെ സവിശേഷത അതിന്റെ ഇംപെഡൻസിൽ അന്തർനിർമ്മിതമാണ് അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സിൽ ഇംപെഡൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാർക്കിടയിൽ RF എഞ്ചിനീയർമാർ ഇംപെഡൻസ് മാച്ചിങ്നും ഒപ്റ്റിമൽ പവർ ഡെലിവറിക്കുമുള്ള ഇംപെഡൻസിനെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവാണെന്ന് നമ്മൾ പറഞ്ഞു RF മെഷർമെന്റ് RF സർക്യൂട്ട് ഇവയിലെ ഏത് കാര്യത്തിലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാൻ ഈ 3 മെഷർമെന്റ് ആവശ്യമാണ് ഇത് മൈക്രോവേവ് ബെഞ്ച് എന്ന ഒരൊറ്റ സെറ്റ് ഉപകരണം ഉപയോഗിച്ച് ചെയ്യാം മൈക്രോവേവ് ബെഞ്ചിന് ഈ 3 മെഷർമെന്റ് അളക്കാൻ കഴിയും എന്നിരുന്നാലും അതൊരു ലബോറട്ടറി ഘടകമാണ് എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് ഇംപെഡൻസ് അളക്കുന്നത് മാത്രമേ കാണൂ കാരണം ഇത് മറ്റുള്ള എല്ലാത്തിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ കരുതുന്നു കാരണം ഇംപെഡൻസ് അളക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു RF എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങളുടെ ജോലിയിൽ അത് ഒരു പ്രശ്നമായി തീരും ഇതൊരു സാധാരണ മൈക്രോവേവ് ബെഞ്ചാണ് ഇടതുവശത്ത് കാണാൻ സാധിക്കുന്നത് ഒരു ക്ലൈസ്ട്രോൺ സോഴ്സ് അടിസ്ഥാനമാക്കിയുള്ള മൈക്രോവേവ് ബെഞ്ചാണ് സാധാരണയായി ലബോറട്ടറികളിൽ നിങ്ങൾക്ക് ഒരു വാക്വം ട്യൂബ് ആയ ക്ലൈസ്ട്രോൺ ഉണ്ടായിരിക്കാം ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് മില്ലി വാട്ട് പവർ നൽകുന്നതിന് പറ്റിയ വളരെ സ്റ്റേബിൾ ട്യൂബ് ആണ് ഇത് എന്നാൽ അതിന് പവർ ലേബൽ പവർ ഔട്ട്പുട്ട് അൽപ്പം കുറവുള്ള ഗൺ ഡയോഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സെമികണ്ടക്ടർ കൌണ്ടർ ഭാഗവുമുണ്ട് എന്നാൽ വാക്വം ട്യൂബ് സെമികണ്ടക്ടർസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ പരുക്കൻ ആണെന്ന് നിങ്ങൾക്കറിയാംഅതുകൊണ്ടാണ് സെമികണ്ടക്ടർസും ഉപയോഗിക്കുന്നത് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഇടതുവശത്തുള്ള കറുപ്പ് നിറത്തിൽ ക്ലൈസ്ട്രോൺ സോഴ്സ് കാണാം സോഴ്സ്ന് ശേഷം ഒരു ഐസൊലേറ്റർ ഉണ്ട് സോഴ്സ് വേർതിരിക്കേണ്ടതുണ്ട് കാരണം ഏത് സോഴ്സും കുറഞ്ഞ ഇംപെഡൻസ് ഉള്ള ഒന്നാണ് ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്ന വേവ്സ് വന്നാൽ ചിലപ്പോൾ ലോഡിന്റെ ഇംപെഡൻസ് നിലയെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു പവർ ഉണ്ടായിരിക്കുമെന്ന് അറിയുക നിങ്ങൾക്ക് വലിയ അളവിൽ റിഫ്ലക്ഷനുണ്ടെങ്കിൽ സോഴ്സിലേക്ക് ധാരാളം പവർ വരാം കൂടാതെ കുറഞ്ഞ ഇംപെഡൻസ് ഉള്ള ഉപകരണമായതിനാൽ അത് നശിപ്പിക്കപ്പെടാം അതിനാൽ ഐസൊലേറ്റർ ഇവയ്ക്കുള്ള ഒരു പ്രതിരോധം തീർക്കുന്നു അതിനുശേഷം ഒരു അറ്റെന്വറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം അറ്റെന്വേഷൻ കൊടുക്കാൻ കഴിയുന്ന സോഴ്സിൽ നിന്ന് ഒഴുകുന്ന എന്തിന്റെയെങ്കിലും പവർ ലെവൽ മാറ്റുന്നതിനാണ് അറ്റെന്വറ്റർ അപ്പോൾ സിലിണ്ടർ ആകൃതിയിലുള്ള സിലിണ്ടർ മൈക്രോവേവ് ക്യാവിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വസ്തു ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഇത് ഒരു ഫ്രീക്വൻസി മീറ്ററാണ് ഇതിനെ റിയാക്ഷൻ ടൈപ്പ് വേവ് മീറ്റർ എന്നും വിളിക്കുന്നു അതിനാൽ അവക്ക് സിലിണ്ടർ ബോഡിയിൽ ചില ക്രമികരണം ഉണ്ട് അതായത് നിങ്ങളുടെ ഫ്രീക്വൻസികൾ അവിടെ വായിക്കുന്നു ഇത് ഫ്രീക്വൻസി വായിക്കുന്നതിനുള്ള ഒരു മെക്കാനിക്കൽ മാർഗമാണ് പക്ഷേ നമ്മൾ അത് ഒരു വേവ് ഗൈഡ് വിഭാഗത്തിലേക്ക് റെക്റ്റാങ്കുലർ വേവ് ഗൈഡിലേക്ക് കൈമാറുന്നു അടിസ്ഥാന ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്നാൽ ഉയർന്ന ഫ്രീക്വൻസി എന്നാണ് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് ജിഗ ഹെർട്സ് ശ്രേണിയിൽ നിങ്ങൾക്ക് ഗണ്യമായ പവർ വേവ് ഗൈഡ് ഉണ്ടെങ്കിൽ അത് ഒരു കോആക്സിയൽ ട്രാൻസ്മിഷൻ ലൈനല്ല അതിനാൽ മൈക്രോവേവിൽ പൊതുവെ അടിസ്ഥാന ട്രാൻസ്പോർട്ട് മെക്കാനിസം വേവ് ഗൈഡാണ് അതിനാൽ അതിന്റെ മധ്യഭാഗത്ത് ഒരു സ്ലോട്ട് കാർട്ടുള്ള ഒരു വേവ് ഗൈഡ് ഉണ്ട് അതിലൂടെ ഒരു പ്രോബ് ഘടിപ്പിച്ചിരിക്കുന്നു അടിസ്ഥാനപരമായി പ്രോബ് ഒരു പോയിന്റ് കോൺടാക്റ്റ് ഡയോഡ് പ്രോബ് ആണ് അത് ഒരു മീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതൊരു പുതിയ സംഗതിയാണ് ഇതിനെ VSWR മീറ്റർ എന്ന് വിളിക്കുന്നു നിങ്ങൾ കാണുന്നത് രണ്ട് പെട്ടികളാണ് വലത് വശത്തെത് നിങ്ങൾ വേവ് കാണുന്ന മീറ്ററാണ് പ്രത്യേകിച്ച് VSWR അത് അടുത്തതായി വരും ഇടത് വശം ആ ക്ലൈസ്ട്രോൺ സോഴ്സിനുള്ള പവർ സപ്ലൈയാണ് പ്രവർത്തനപരമായി ഇത് കാര്യേജ്നോട് കൂടിയ സ്ലോട്ട് ലൈൻ ആണ് ഈ റക്റ്റാങ്കുലർ വേവ് ഗൈഡ്നെ കുറിച്ചാണ് ഞാൻ സംസാരിച്ച്കൊണ്ടിരുന്നത് ഇടതുവശത്തുള്ളത് റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ അങ്ങോട്ടുമിങ്ങോട്ടും നീങ്ങാൻ കഴിയുന്ന ആ പ്രോബ് ഉള്ളതിനാലാണ് കാര്യേജ് ഉള്ളത് അതിനാൽ അതിലൂടെ നിങ്ങൾക്ക് ആ സ്ലോട്ടിൽ നീക്കാൻ കഴിയും അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ പ്രോബ്ന്റെ സ്ഥാനം മാറ്റാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അതിനാൽ ലൈനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് റെക്റ്റാങ്കുലർ വേവ് ഗൈഡുകൾ ഇനി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട് ഇവയും ലബോറട്ടറിയിൽ ആവശ്യമാണ് നിങ്ങൾക്ക് ഷോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലോഡ് ബെൻഡ് റിഡ്ജ് ഗൈഡ് അഡാപ്റ്റർ അറ്റൻവേറ്റർ വേരിയബിൾ അറ്റൻവേറ്റർ എന്നിവയ്ക്ക് പകരം അഡാപ്റ്റർ കാണാം തുടർന്ന് രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു ഒന്ന് ഡയറക്ഷണൽ കപ്ലർ ഇവ ഉപകരണത്തെ വേർതിരിക്കുന്നതിനുള്ള വളരെ പ്രധാനപെട്ട ഒന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോർവേഡ് വേവ്നെയും റിഫ്ലക്ഷൻ വേവ്നെയും വേർതിരിക്കാനാകും നെറ്റ്വർക്ക് അനലൈസർ എന്ന് വിളിക്കപ്പെടുന്ന ഈ മൈക്രോവേവ് ബെഞ്ചിന്റെ ആധുനിക കാലത്തെ പകരം വയ്ക്കലിന്റെ അടിസ്ഥാനം ഇതാണ് തുടർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു മാജിക് ടീ കാണാം മാജിക് ഒന്നുമില്ല പക്ഷേ ഇത് ഒരു പവർ ഡിവൈഡറായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഉപകരണമാണ് ഒരു കമ്പയിനർ ഒരു സമ്മർ ഒരു ഡിഫറെന്ഷിയേറ്റർ എല്ലാമായി ഇതിന് പ്രവർത്തിക്കാൻ കഴിയും ഇപ്പോൾ ഇത് ഗൺ അടിസ്ഥാനമാക്കിയുള്ള ബെഞ്ചാണ് ഞാൻ പറഞ്ഞതുപോലെ ക്ലൈസ്ട്രോണിന് പകരം നിങ്ങൾക്ക് ഗണ്ണുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഗൺ ചെയുന്നു എന്നാൽ അടിസ്ഥാനപരമായി നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് പോലേ അതേ കാര്യം ചിത്രമായി കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഒരു RF സോഴ്സ് ഉണ്ട് എന്നാൽ ഒരു ഡയോഡ് ഉപയോഗിച്ച് നമ്മൾ ആ RF സോഴ്സ് കണ്ടെത്തുകയാണ് ഞാൻ പറഞ്ഞതുപോലെ പോയിന്റ് കോൺടാക്റ്റ് ഡയോഡ് അതിനാൽ ക്യാരിയേജ്ലുള്ള ഡയോഡിന് നിങ്ങളുടെ മൈക്രോവേവ് കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ഇതിന് 1 കിലോ ഹെർട്സ് സിഗ്നൽ കണ്ടെത്താൻ കഴിയും നമ്മൾ RF ന് ഒരു കിലോ ഹെർട്സ് മോഡുലേറ്റിംഗ് സിഗ്നൽ നൽകുന്നു അതുകൊണ്ടാണ് ഒരു കിലോ ഹെർട്സിന്റെ മോഡുലേഷനിൽ ഇത് വരുന്നത് ഡയോഡിന് 1 കിലോ ഹെർട്സ് കണ്ടെത്താൻ കഴിയും അതിനാൽ ഇവിടെ നമ്മൾ RF വിഭാഗങ്ങൾ ഏതാണെന്ന് കാണിച്ചിരിക്കുന്നു 1 കിലോ ഹെർട്സ് വസ്തു എവിടെയാണ് നിങ്ങൾ വേവ് ഫോംസ് കണ്ടോ അതിനാൽ നിങ്ങൾക്ക് വലതുവശത്ത് ക്ലൈസ്ട്രോണിൽ നിന്ന വരുന്നു മോഡുലേഷനുശേഷം അതേ RF വേവ്ഫോം നിങ്ങൾ അടുത്തതായി കാണുന്നത് പോലെയാണ് അത് 1 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയിൽ ചില ഓഫ് മോഡുലേഷൻ ഉള്ളതായി കാണുന്നു അതിനാൽ ഇത് കാണിക്കുന്ന രണ്ടാമത്തെ വേവ് ഫോം ആയി മാറുന്നു തുടർന്ന് അറ്റെനുയേഷന് ശേഷം അത് ഇതുപോലെയാണ് ആയിരിക്കും ഇപ്പോൾ വേവ് ഗൈഡുകൾക്കുള്ളിൽ പോവുകയും തിരികെ വരുകയും ചെയുന്ന വേവ് ഉണ്ടാകും അങ്ങനെ അവിടെ ഒരു സ്റ്റാൻഡിംഗ് വേവ് സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ സ്റ്റാൻഡിംഗ് വേവ് നമ്മൾ അളക്കുന്നു ഇതിൽ കാണിച്ചിരിക്കുന്ന പോയിന്റ് കോൺടാക്റ്റ് ഡയോഡ് ഡിറ്റക്ടറുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ട്യൂണബിൾ പ്രോബ് നിങ്ങൾ കാണുന്നു ഇത് ഡിറ്റക്ടറിന്റെ ഫീൽഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഒടുവിൽ ഇത് നിങ്ങളുടേതിലേക്ക് പോകുന്നു അതിനാൽ വോൾട്ടേജിൽ നിന്ന് നമ്മൾ അയയ്ക്കുന്ന കറന്റ് ഡയോഡാണ് അത് കറന്റിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ആ കറന്റ് VSWR മീറ്ററിലേക്കു പോകുന്നു ഇനി നമ്മുക്ക് അടിസ്ഥാന പോയിന്റ് അൺനോൺ ലോഡ് ഇംപെഡൻസിന്റെ മെഷർമെന്റ് എടുക്കുന്നതിലേക്ക് വരാം അതിനാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തെന്നാൽ ഒന്ന് ലൈനിന്റെ VSWR മെഷർമെന്റ് അതായത് ആ വേവ് ഗൈഡിനെ ആശ്രയിച്ച് നമ്മൾ അവസാനിപ്പിച്ച ശേഷം നമ്മുടെ റിയൽ ഡയഗ്രാമുകളിലേക്ക് നമ്മൾ തിരികെ പോകുകയാണെങ്കിൽ അവസാനത്തിൽ നമ്മൾ നൽകുന്ന ഒരു ടെർമിനേഷൻ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു അത് ലോഡ് ആണ് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ അനുസരിച്ച് നമ്മൾ എന്ത് ലോഡ് നൽകുന്നുവോ അത് വേവ് ഗൈഡിനുള്ളിൽ സൃഷ്ടിക്കപ്പെടും കൂടാതെ VSWR VSWR എന്നാൽ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈൻ സിദ്ധാന്തത്തിൽ നിന്ന് അത് വോൾട്ടേജ് പരമാവധി എന്ന് നിർവചിച്ചിരിക്കുന്നത് വോൾട്ടേജ് മിനിമം ലൈൻ ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അത് മിസ്മാച്ച്നെ ആശ്രയിച്ചിരിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് ക്യാരക്ടർസ്റ്റിക്സ് ഇംപെഡൻസ് Z0 ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടെങ്കിൽ ലോഡ് ZL ആണെങ്കിൽ അതിനെ ആശ്രയിച്ച് ഒരു സ്റ്റാൻഡിംഗ് വേവ് സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം അത് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ആണ് നമ്മൾ കണ്ടത് പോലേ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ZL−Z0Z L Z0 ആണ് എന്നാൽ മറ്റൊരു മാനദണ്ഡം റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിൽ നിന്നുള്ള ഒരു സ്കെയിലർ മാനദണ്ഡം അതായത് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ഒരു സങ്കീർണ്ണമായ മെഷെർമെന്റ് ആകുന്നു എന്നാൽ അവ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് VSWR എന്നത് ഇതിലെ സ്കെയിലർ മെഷർമെന്റ് ആണ് VSWR നിർവചിച്ചിരിക്കുന്നത് VSWR VₘₐₓVₘᵢₙ ആയാണ് അതായത് നമുക്ക് വ്യത്യാസപ്പെടുന്ന ഒരു ഡിസ്ട്രിബ്യുഷൻ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാക്സിമം മുതൽ മിനിമം വരെ ഉള്ളതിനെ വിഎസ്ഡബ്ല്യുആർ എന്ന് വിളിക്കപ്പെടുന്നു കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലൈനിൽ നിന്നും മിനിമം പൊസിഷനിൽ നിന്നും മെഷർ ചെയ്യണ്ടതും വോൾട്ടേജ് മിനിമയിലെ ഷോർട് അൺനോണുമായ ലോഡിനായിയുള്ള മിനിമം ഷിഫ്റ്റ് മെഷർമെന്റും നമ്മൾ കാണാൻ പോകുന്നു P അതിനാൽ അതിന്റെ അർത്ഥമെന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ നമുക്ക് വോൾട്ടേജ് മിനിമ കാണാൻ കഴിയും അതിലെ ഷിഫ്റ്റ് എന്താണ് രണ്ട് സന്ദർഭങ്ങളിൽ ഒന്ന് നമ്മൾ ഒരു ഷോർട്ട് ഇട്ടാൽ വോൾട്ടേജ് മിനിമ പൊസിഷൻ നമ്മൾ രേഖപ്പെടുത്തും അത് മാറ്റി നമ്മൾ അളക്കാൻ ശ്രമിക്കുന്ന ഒരു അൺനോൺ ലോഡ് ഇടും മിനിമ എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തും ആ സ്ഥാനം നമ്മൾ നോട്ട് ചെയ്യും ഷിഫ്റ്റ് നമ്മൾ lmin എന്ന് വിളിക്കുന്നു അതിനാൽ ഈ 2 എണ്ണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അൺനോൺ ലോഡ് ഇംപെഡൻസ് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ VSWR മീറ്റർ വഴി നടത്തുന്ന VSWR മെഷർമെന്റ് ആണ് ആദ്യത്തെ ഭാഗം മൈക്രോവേവ് ബെഞ്ചിൽ നമ്മൾ ഇതിനകം VSWR മീറ്റർ കണ്ടു ഇത് അതിന്റെ മികച്ച കാഴ്ചയാണ് അതിനാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ലാബുകളിൽ ഉപയോഗിച്ചു വിവിധ പവർ നോബുകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണും അതിനാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു എസി പവർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പവർ തുടങ്ങിയവ ബന്ധിപ്പിക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾ ബന്ധിപ്പിക്കുന്ന പ്രോബ് കണ്ടെത്താനും ആ പ്രോബ്നെ ആശ്രയിച്ച് നിങ്ങൾക്ക് ശരിയായ ഇംപെഡൻസ് ലഭിക്കുകയും ചെയ്യും ഇൻപുട്ട് സെലക്ടർ ഉണ്ട് 100 കെ അല്ലെങ്കിൽ ഒരു 100 ഓം മുതലായവ ഉണ്ട് അതായത് നിങ്ങളുടെ നേരിട്ടുള്ള കോൺടാക്റ്റ് പ്രോബിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഈ പോയിന്റ് മാറ്റാൻ കഴിയുന്ന ഇംപെഡൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്പർ 3 ഇൻപുട്ടാണെന്ന് കാണാൻ കഴിയും അതിനർത്ഥം അവിടെ നിങ്ങൾ ഒരു ബിഎൻസി കേബിളിലൂടെ ആ സ്ലോട്ട് കാര്യേജിൽ നിന്ന് ബന്ധിപ്പിക്കുന്ന സിഗ്നൽ ഇതിലേക്ക് ഇൻപുട്ടിൽ എടുക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് പ്രവർത്തനത്തിന്റെ ഫ്രീക്വൻസി മാറ്റാം അതായത് നിങ്ങൾ ഇപ്പോൾ 1 കിലോ ഹെർട്സ് സിഗ്നൽ എടുക്കുന്നത് നമ്മൾ കണ്ടു ആ ഫ്രീക്വൻസി നോബ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അൽപ്പം ക്രമീകരിക്കാൻ കഴിയും അത് നമ്പർ 6 ആണ് തുടർന്ന് നമ്പർ 7 ആ സിഗ്നലിന്റെ ബാൻഡ്വിഡ്ത്ത് ആണ് 1 കിലോ ഹെർട്സ് സെന്റർ ഫ്രീക്വൻസി യാണ് എന്നാൽ അവിടെ നിങ്ങൾക്ക് ബാൻഡ്വിഡ്ത്ത് ഉപയോഗിച്ച് കളിക്കാം എന്നാൽ ഈ റേഞ്ച് നോബിൽ കൂടുതൽ പ്രധാനമയത് dB സ്കെയിലിൽ നിങ്ങൾ നൽകുന്ന ആ 8 ഉം 9 ഉം ആണ് മറ്റൊരു പ്രധാന കാര്യം ഇവയാണ് 10 ഉം 11 ഉം അവ ഗൈനാണ് നിങ്ങൾക്ക് നല്ല അളവിൽ സിഗ്നൽ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഎസ്ഡബ്ല്യുആർ മീറ്ററിന് ഒരു ഗൈൻ നൽകാം ഈ വിഎസ്ഡബ്ല്യുആർ മീറ്റർ സത്യത്തിൽ മറ്റൊന്നുമല്ല ഒരു ട്യൂൺ ചെയ്ത ആംപ്ലിഫയർ ആണ് ഏത് വോൾട്ടേജ് വന്നാലും അത് ആംപ്ലിഫൈ ചെയ്യുകയും നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നു ഇത് ഒരു ട്യൂൺ ചെയ്ത ആംപ്ലിഫയർ പോലെയാണ് കൂടാതെ ഡിസ്പ്ലേയും നമ്പർ 12 ഉം ഉണ്ട് എല്ലാ ഡിസ്പ്ലേകളും നിങ്ങൾക്ക് അറിയാം ചിലപ്പോൾ ഒരു മെക്കാനിക്കൽ ഓഫ്സെറ്റ് കാര്യം ആവശ്യമാണ് കാരണം സിഗ്നലൊന്നും നൽകാത്തപ്പോൾ നിങ്ങൾ ചില റിഫ്ലക്ഷൻ കാണും എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ സ്പ്രിംഗിന്റെ സൂചിക്ക് മെക്കാനിക്കൽ അഡ്ജസ്റ്മെന്റ് ആവശ്യമാണ് അത് 12 ാം നമ്പർ ആണ് ഇപ്പോൾ ഈ VSWR മീറ്ററാണ് VSWR അളക്കുന്നത് ഞാൻ പറഞ്ഞതെന്തും നിങ്ങൾക്ക് കാണാം ഇതാണ് VSWR മീറ്റർ ഫ്രണ്ട് പാനൽ ഒരുവിധം ഇതേ മോഡൽ തന്നെ ആണ് കാണുക VSWR ന്റെ മൂല്യം എന്താണെന്ന് ആ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് അളക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുകയും ചെയ്യുന്നു ഇതാണ് VSWR മീറ്റർ ഡിസ്പ്ലേ വലതുഭാഗം VSWR ആണെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ഒന്നിൽ നിന്ന് ഇൻഫിനിറ്റി വരെ വ്യത്യാസപ്പെടാമെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ഒരു മാച്ച് ലോഡ് ഉണ്ടെങ്കിൽ VSWR 1 ആണ് നിങ്ങൾക്ക് ചെറുതോ തുറന്നതോ ആയ VSWR ആണെങ്കിൽ ഇൻഫിനിറ്റിയാണ് അതിനാൽ ഈ സ്കെയിൽ 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എന്നാൽ 1 ൽ രണ്ടും ആ സ്കെയിൽ നൽകുന്നില്ല അതിനാൽ ഏറ്റവും ഉയർന്നത് 1 മുതൽ 1 2 അല്ലെങ്കിൽ 3 വരെ അവർ നൽകുന്നു നിങ്ങൾക്ക് കൂടുതൽ വിഎസ്ഡബ്ല്യുആർ ഉണ്ടെങ്കിൽ നിങ്ങൾ 1 മുതൽ 4 വരെ മാറുന്നു കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 വരെ മാറാം സാധാരണയായി പത്തിൽ കൂടുതൽ നമ്മൾ അളക്കാറില്ല സിദ്ധാന്തപരമായി ഇതിന് ഇൻഫിനിറ്റിയിലേക്ക് പോകാമെങ്കിലും ആ സമയത്ത് ഒരു കാര്യവുമില്ല കാരണം നിങ്ങൾക്ക് വളരെയധികം അതായത് അനന്തമായ മൂല്യം ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് ഉപയോഗശൂന്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈൻ മാറ്റിസ്ഥാപിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങുകയാണെങ്കിൽ ഇതൊരു ട്രാൻസ്മിഷൻ ലൈൻ സ്റ്റഫ് ആണ് ലൈൻ വോൾട്ടേജിലെ വോൾട്ടേജ് എന്നാൽ ഈ മൊത്തം വോൾട്ടേജ് എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ട്രാൻസ്മിഷൻ ലൈൻ തിയറി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും അതായത് ഇൻസിഡന്റ് വോൾട്ടേജും റിഫ്ലക്ഷൻ വോൾട്ടേജും ചേർന്ന് അതിനെ ടോട്ടൽ വോൾട്ടേജ് എന്ന് വിളിക്കപ്പെടുന്നു അതാണ് ഈ സൂത്രവാക്യം നൽകുന്നത് |V ||1Γ Le⁻ʲ²ᵝᵡ ||1Γ ||VL| |V | മാഗ്നിറ്റ്യൂഡ് ആണ് V ഒരു ഫേസറാണ് ഇവിടെ x എന്നത് ലോഡിൽ നിന്നുള്ള നിങ്ങളുടെ അകലമാണ് x ൽ ഉള്ള ലോഡ് 0 ന് തുല്യമാണ് അതിനാൽ x ഏത് ദൂരത്തിന് തുല്യമാണോ അപ്പോൾ ഡിനോമിനേറ്റർ |1Γ L | ആണ് തുടർന്ന് VL എന്നത് ലോഡിലെ വോൾട്ടേജാണ് അതിൽ ലോഡിൽ നിന്ന് ജനറേറ്ററിലേക്ക് ഞാൻ ലൈനിലൂടെ നീങ്ങുകയാണെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ലോഡിൽ ഞാൻ കാണുന്ന വോൾട്ടേജ് എന്തുതന്നെയായാലും എല്ലായിടത്തും വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുന്നു അതിനെ ലൈൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നു അതിനാൽ എല്ലായിടത്തും കറന്റ് മാറിക്കൊണ്ടിരിക്കുന്നു എല്ലായിടത്തും ഇംപെഡൻസ്ഉം ലൈൻ ഇംപെഡൻസും മാറുന്നു എന്നാൽ മുഴുവൻ ഗെയിമിലും ഒന്ന് റിഫ്ലക്ഷൻ കോയെഫിഷ്യയന്റും ലൈൻ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റും മാറുന്നു എന്നാൽ മാറ്റമില്ലാത്ത അളവ് VSWR ആണ് അത് ലോഡിലെ മിസ്മാച്ച്നെ ആശ്രയിച്ചിരിക്കുന്നു ഈ വോൾട്ടേജ മാറും പക്ഷേ VmaxVmin എന്ന ഈ VSWR അനുപാതം മാറ്റമില്ലാതെ തുടരും അതിനാൽ ഞാൻ വരിയിലൂടെ നീങ്ങിയാൽ VSWR മാറില്ല അതിനാൽ നമുക്ക് അളക്കാൻ കഴിയുമെങ്കിൽ ലോഡ് എന്താണെന്ന് കണ്ടെത്താനാകും നിങ്ങൾ ലൈനിലെ വ്യതിയാനങ്ങൾ നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് പരമാവധി ആയിരിക്കും അതായത് x വ്യതിയാനം വരുന്നത് ന്യൂമറേറ്ററിൽ മാത്രം ആണ് മറ്റുള്ളവ എല്ലാം കോൺസ്റ്റന്റാണ് കാരണം ലോഡ് ഡിഫ്ലെക്ഷൻ കോയെഫിഷ്യന്റ് എന്നത് ലോഡ് സ്റ്റിംഗ് അതിനാൽ യഥാർത്ഥത്തിൽ Γ L|Γ L|∠ φ ΓL −2 βd എനിക്ക് d ദൂരമുണ്ടെങ്കിൽ ഫേസർ ഡയഗ്രാമിൽ ഇതിനെ ക്രാങ്ക് ഡയഗ്രം എന്ന് വിളിക്കുന്നു 1 എന്നത് നിങ്ങളുടെ 1 0 ഫേസറാണെന്നും പിന്നീട് അത് പച്ചയുടെ മറ്റൊരു ഫേസർ ഉപയോഗിച്ച് സംഗ്രഹിക്കുമെന്നും നമ്മൾ ഇവിടെ കാണിച്ചു അതിനാൽ ഫലം ഈ ചുവന്ന 1 ഫേസർ ആണ് അതിനാൽ ആ ചുവന്ന വസ്തു റിയൽ ആക്സിസിസിൽ വീഴുമ്പോൾ അതിന്റെ പരമാവധി മൂല്യം മാറ്റുന്നു അതായത് നിങ്ങൾ 1 0 യുമായി കോളിനിയർ ആയിരിക്കും അതായത് ഈ ചുവപ്പും പച്ചയും കോളിനിയറായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് മാക്സിമ ലഭിക്കും അവ കോളിനിയറും എന്നാൽ വിപരീതവും ആയിരിക്കുമ്പോൾ അതായത് മറ്റൊരു 180 ഡിഗ്രി റോറ്റേഷൻ ശേഷം പച്ച നിറം 1∠ 0 ° ലേക്ക് വിപരീതമായി നയിക്കപ്പെടും അതിനാൽ ആ സമയം നമുക്ക് വോൾട്ടേജ് മിനിമ ലഭിക്കും അതിനാൽ ആ 2ഉം കോളിനിയറും ഒരേ ഡയറക്ഷനും ആയിരിക്കുമ്പോൾ വോൾട്ടേജ് പരമാവധി ആയിരിക്കും അതിനാൽ ഇപ്പോൾ നമ്മൾ ലൈനിലൂടെ നീങ്ങിയാൽ വോൾട്ടേജ് മാക്സിമയിലേക്കും മിനിമയിലേക്കും പോകുമെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ 2 ഫേസറുകൾ കോളിനിയറും എന്നാൽ വിപരിതവും ആയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മിനിമ സംഭവിക്കുന്നു അതിനാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും അതായത് ഓപ്പോസിറ്റ് എന്നാൽ ഇതാണ് അർത്ഥം φΓL −2 βdπ അപ്പോൾ അവ മാത്രമായിരിക്കും 2 ഫേയ്സറുകൾ അവ തീർത്തും വിപരീതമായിരിക്കും അതിനാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് φΓ π 2 βdmin കണ്ടെത്താനാകും അതിനാൽ വോൾട്ടേജ് മാക്സിമയിലൂടെ കടന്നുപോകുന്നു മിനിമ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൂടാതെ ഫേസർ റോറ്റേഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഫേസറിൽ ഫുൾ റൊട്ടേഷൻ പുറത്തിയാക്കിയാൽ യഥാർത്ഥത്തിൽ അത് λg2 റോറ്റേഷൻ ആണ് എവിടെ λg ലൈനിനൊപ്പം ഉള്ള ഗൈഡ് വേവ്ലെങ്ത് ആണ് വോൾട്ടേജ് മിനിമ ഓരോ λg2 യിൽ ലൈനിൽ ആവർത്തിക്കുന്നു അതിനാൽ അതിനുള്ള പരമാവധി മൂല്യം എന്താണ് എന്ന് നമുക്ക് നോകാം നിങ്ങൾ ഇപ്പോൾ ഈ v മാക്സ് കോളിനിയറായിരിക്കുമ്പോൾ ഉള്ള മൂല്യം നൽകികൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് പുറത്തുവരുന്നത് V max |V L| Vₘᵢₙ1−|ΓL| 1|Γ ||V L||V L| എന്ന ആയിരിക്കും അതിനാൽ നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ വിഎസ്ഡബ്ല്യുആർ ഇതാണ് നമ്മൾ ഇവ നിർവചിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഏത് പൊതു ട്രാൻസ്മിഷൻ ലൈനിലും ഇത് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ്മായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു VSWR V maxV min 1|Γ|1−|Γ| അതിനാൽ നമ്മൾ പറഞ്ഞ VSWR എന്നത് ലൈനിൽ സ്ഥിരമായ ഒന്നാണ് അത് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ്മായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നമ്മുടെ സ്മിത്ത് ചാർട്ടിൽ നിന്ന് നമുക്കറിയാവുന്നതുപോലെ ഇത് ഇമ്പിഡൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമുക്ക് VSWR അറിയാമെങ്കിൽ അത് അളക്കാവുന്ന അളവാണെങ്കിൽ ഇവയിൽ നിന്ന് നമുക്ക് എല്ലായ്പ്പോഴും അൺനോൺ ഇമ്പിഡൻസ് കണ്ടെത്താനാകും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ഒരു അവസാനിപ്പിക്കുന്നതിനായി ഇട്ടു അതിനാൽ മുകളിലെ ഗ്രാഫ് നിങ്ങൾ കാണുന്നു അതിൽ നിങ്ങൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ഇട്ടാൽ അവിടെ വോൾട്ടേജ് 0 ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ജനറേറ്ററിലേക്ക് ലൈനിലൂടെ നീങ്ങിയാൽ മാക്സിമ മിനിമയിലേക്ക് പോകും ഈ കാര്യം ക്രാങ്ക് ഡയഗ്രമിൽ നിന്നാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വ്യതിയാനം ഉണ്ടാകുമെന്ന് തെളിയിക്കാനാകും അതിനാൽ മൈക്രോവേവ് ശ്രേണിയുടെ കാര്യേജിൽ ഈ സ്കെയിൽ ഘടിപ്പിച്ചിരിക്കുന്നു അതിൽ നിന്ന് മിനിമയുടെ സ്ഥാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിന് ഞാൻ ഷോർട്ട് സർക്യൂട്ട് കണക്റ്റുചെയ്തശേഷം നിങ്ങൾ ഷോർട്ട് സർക്യൂട്ട് നീക്കംചെയ്ത് ഒരു അൺനോൺ ലോഡ് ഇടുക തീർച്ചയായും ഈ ലോഡ് ചെറുതോ തുറന്നതോ മറ്റെന്തെങ്കിലുമോ അല്ല എങ്കിൽ ലോഡിന്റെ സ്ഥാനത്ത് ഒരു ഷോർട്ട് സർക്യൂട്ടിൽ ആ സ്ഥാനത്ത് നിൽക്കുന്ന വേവ് പാറ്റേൺ മാത്രമായിരിക്കും നമ്മൾക്ക് ഒരു 0 ഉണ്ട് നിങ്ങൾക്ക് ലോഡിന്റെ സ്ഥാനത്ത് ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോൾട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് മാക്സിമയുടെ അനന്തമായ മൂല്യമുണ്ട് എന്നാൽ പൊതുവായ ഒരു അൺനോൺ ലോഡിൽ നിങ്ങൾക്കത് മാക്സിമ ആയിരിക്കാം അഥവാ മിനിമ ആയിരിക്കാം അതിനാൽ ഒരു അൺനോൺ ലോഡിന് അത് എങ്ങനെയുണ്ടെന്ന് കാണിക്കുന്ന രണ്ടാമത്തെ ഗ്രാഫ് നമ്മളുടെ പക്കലുണ്ടെന്ന് നിങ്ങൾ കാണുന്നത് അവിടെയായിരിക്കും എന്നാൽ ഇവിടെയും നിങ്ങളുടെ പ്രോബ് നീക്കുന്നതിലൂടെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം എന്താണെന്ന് കണ്ടെത്താനാകും പരമാവധി സ്ഥാനം എന്താണ് ആ മിനിമകൾ നോക്കൂ ഇപ്പോൾ VSWR അളക്കാൻ നിങ്ങൾ ഒരു കാലിബ്രേഷൻ നടത്തേണ്ടതുണ്ട് കാലിബ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി വോൾട്ടേജ് voltage എന്താണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് Vmax കിട്ടുന്നു VSWR മീറ്ററിൽ ഗൈൻ നോബുകളും മറ്റും ഉണ്ട് അതിനാൽ നിങ്ങൾ ഒന്നിലേക്ക് ക്രമീകരിക്കുന്ന നിമിഷം Vmin അത് V min 1S ആയി മാറുന്നു നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ Vmax ഉണ്ടാക്കിയാൽ അടിസ്ഥാനപരമായി Vmin 1S ആയി മാറുന്നു അതിനാൽ നമ്മൾ എഴുതുന്നത് V min 1S എന്നാണ് ഇപ്പോൾ VSWR മീറ്റർ സ്കെയിൽ ഈ S ന്റെ ടെമിൽ ഗ്രാജുവേറ്റ് ആവുന്ന S വിഎസ്ഡബ്ല്യുആറി ലേക്ക് നീങ്ങുന്നു അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത് അളക്കാൻ കഴിയും VSWR അളക്കാൻ ഈ ഉപകരണം നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ വീണ്ടും എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോബ് ട്യൂൺ ചെയ്തുകൊണ്ട് പീക്ക് VSWR മീറ്റർ നടപടിക്രമങ്ങൾ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ പ്രോബ് ലൈനിലൂടെ നീക്കി കൊണ്ട് വോൾട്ടേജ് മാക്സിമം കണ്ടെത്തുക വിഎസ്ഡബ്ല്യുആർ റീഡിംഗ് ലഭിക്കുന്നതിന് ഗെയിൻ വെർനിയർ നോബ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ എന്നിവ ക്രമീകരിക്കുക അതായത് നിങ്ങളുടെ സൂചി VSWR ഡിസ്പ്ലേയിൽ ഇടത്തേക്ക് നീങ്ങുന്നു നിങ്ങൾക്ക് മിനിമ ലഭിക്കുന്ന പോയിന്റിൽ സ്കെയിലിലെ VSWR മൂല്യങ്ങൾ ശ്രദ്ധിക്കുക അതായിരിക്കും ലൈനിന്റെ VSWR അതിനാൽ ചുവപ്പ് നിറമുള്ള വോൾട്ടേജ് ഷോർട്ട്ഡ് ആയതിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓപ്പൺ ആയതിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു നമ്മൾ ഇതിനകം കണ്ട പൊതുവായ സാഹചര്യത്തിൽ ഇത് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് ഇവിടെ കാണിക്കുന്നു ഇപ്പോൾ സാധാരണ മെഷർമെന്റ് സാഹചര്യങ്ങൾ പ്രവർത്തനത്തിന്റെ ഫ്രീക്വൻസി 7 5 ഗിഗാ ഹെർട്സ് ആണെന്ന് കരുതുക ഇത് ലോഡ് പ്ലെയിനിൽ ഷോർട്ട് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ മെഷർ ചെയ്ത വിദ്യാർത്ഥികളിൽ ഒരാളുടെ റെക്കോർഡിംഗാണിത് അതിനാൽ ഷോർട്ട് ലോഡ് പ്ലെയിനിൽ വയ്ക്കുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയ സ്കെയിൽ മിനിമ ആയ സ്ഥലങ്ങൾ രേഖയാക്കി വെച്ചു അൺനോൺ ലോഡ് VSWR ൽ വെച്ച് നമ്മൾ പറഞ്ഞ രീതി ഉപയോഗിച്ച് നമ്മൾ അളന്നു ഇത് 1 5 വോൾട്ടേജ് മിനിമയാണെന്ന് പറയാം ഇപ്പോൾ വോൾട്ടേജ് മിനിമ മാറ്റി അതിനാൽ അവൻ വീണ്ടും ഇവ കണ്ടെത്തി ഇവിടെ ഒരു ചോദ്യം എന്തുകൊണ്ട് നമ്മൾ മിനിമകൾ അളന്നു നമുക്ക് മാക്സിമ അളക്കാമായിരുന്നു അവ രണ്ടും ഒരു λg2 കഴിഞ്ഞ് ആവർത്തിക്കുന്നു എന്നാൽ നിങ്ങൾ കണ്ടിട്ടുഉള്ളതാണ് പരമാവധിക്ക് അടുത്തായി ആ പരമാവധിക്ക് സെൻസിറ്റിവായ വക്രത്തിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾ ചെയ്താൽ അത് 0 ആണ് എന്നത് കാരണം ആ കർവിന് സമീപമുള്ള സ്ലോപ്പ് 0 ആണ് അതിനാൽ നിങ്ങൾ അവിടെ ഒരു പരീക്ഷണം നടത്തുകയും മാക്സിമ തെറ്റിയെന്നും കരുതുക പ്രോബ് ഉണ്ടെങ്കിലും അത് വളരെ ഇൻസെൻസിറ്റീവ് ആയിരിക്കും മിനിമയുടെ സ്ഥാനത്ത് സ്ലോപ്പ് വളരെ ഉയർന്നതാണ് അതിനാൽ അളവിന്റെ സെൻസിറ്റിവിറ്റി നല്ലതാണ് അതിനാലാണ് മാക്സിമയ്ക്ക് പകരം നമ്മൾ എല്ലായ്പ്പോഴും മിനിമ പോയിന്റുകൾ അളക്കുന്നത് അതിനാൽ അത് കുർത്തതായി നിർവചിച്ചിരിക്കുന്നതിനാൽ വോൾട്ടേജ് മാക്സിമയിലാണ് അത് ഫ്ലാറ്റാണ് അതിനാൽ അത് ഷാർപ്പായി നിർവചിച്ചിട്ടില്ല ഓരോ λg2 യിലും ആ മെഷർമെന്റ് വോൾട്ടേജ് മിനിമ ആവർത്തിക്കുന്നത് തുടരാം അതിനാൽ 2 മിനിമ സ്ഥാനം തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുന്നതിലൂടെ നമുക്ക് λg എന്താണെന്ന് കണക്കാക്കാം ഈ സാഹചര്യത്തിൽ അത് 4 സെന്റീമീറ്ററായി വരുന്നു അതിനാൽ ലോഡ് 4 2 സെന്റിമീറ്ററിൽ ആയിരിക്കട്ടെ യഥാർത്ഥത്തിൽ ലോഡ് പൊസിഷൻ നിങ്ങൾക്ക് ലഭ്യമല്ല കാരണം ലോഡ് വെച്ചിരിക്കുന്ന കാര്യേജിൽ ഒരു സ്കെയിൽ ഇല്ല പക്ഷേ എല്ലാം ആവർത്തിക്കപ്പെടുന്നു അതിനാൽ മിനിമ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊന്ന് കണ്ടെത്താനാകും നിങ്ങൾ എടുക്കുന്ന നിരവധി മിനിമകൾ ഉണ്ട് അതിനാൽ 4 2 സെന്റീമീറ്ററിൽ ആ ലോഡ് എടുക്കാം എന്ന് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ അത് അൺനോൺ ലോഡിലേക്ക് മാറ്റുമ്പോൾ ലോഡിന് കീഴിലുള്ള ഏറ്റവും അടുത്തുള്ള മിനിമ 2 72 സെന്റീമീറ്ററാണ് ഞാൻ കാണിച്ചുതന്ന കർവിൽ നിന്ന് കാര്യം മാത്രം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അത് മാറുമ്പോൾ ഈ മിനിമ മാറുന്നുണ്ടോ എന്ന് നോക്കുക ഞാൻ ഈ മിനിമ എടുക്കുന്നു ഈ മിനിമകൾ ലോഡിന് നേരെയാണെന്ന് നിങ്ങൾ കാണുന്നു അത് മാറുന്നു ഞാൻ ഇവിടെ നിന്ന് ഈ മിനിമ എടുക്കുകയാണെങ്കിൽ അത് ജനറേറ്ററിലേക്കാണ് അത് അങ്ങനെയാണോ എന്ന് അളക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇതിൽ നിന്ന് എനിക്ക് 1 48 ആയ lmin ലഭിച്ചു ഞാൻ അത് ജനറേറ്ററിലേക്ക് അടയാളപ്പെടുത്തി വെച്ചു ഇവിടെ നമ്മൾ സ്മിത്ത് ചാർട്ടിന്റെ സഹായം എടുക്കുന്നില്ല നിങ്ങൾക്ക് ഈ കണക്കുകൂട്ടലുകൾ നടത്താം ഗാമാ മാഗ്നിറ്റ്യൂഡ് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡ് VSWR എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാണ് നമ്മൾ കണ്ട ഫോർമുല VSWR V maxVmin 1|Γ|1 |Γ| അതിനാൽ അത് വശങ്ങൾ മാറ്റും Γ VSWR−1 VSWR 1 ഇതിലൂടെ 0 2 ആണ് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് മാഗ്നിറ്റ്യൂഡായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ തീറ്റ നിങ്ങൾക്ക് കണ്ടെത്താനാകും കാരണം β 2 πλ ആണ് നിങ്ങൾക്ക് ലാംഡ λ കണ്ടെത്താൻ കഴിയുന്ന ഫ്രീക്വൻസി നമ്മൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഷിഫ്റ്റ് 1 4 സെന്റീമീറ്ററാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതിനാൽ ആംഗിളിന്റെ അടിസ്ഥാനത്തിൽ ഇത് 86 4 ഡിഗ്രിയും ഗാമ Γ0 2 e j86 0126 j 0 1996 ആയി വരും അതിനാൽ നിങ്ങൾ 2 റെക്റ്റാങ്കുലർ കാര്യങ്ങൾ പരിവർത്തനം ചെയ്താൽ അത് ഇതുപോലെയായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗാമ ലഭിച്ചു ZL 501Γ1 Γ ZL റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാണ് സ്മിത്ത് ചാർട്ടിന്റെ അടിസ്ഥാന ബന്ധം അതിനാൽ ഇത് എല്ലായ്പ്പോഴും സത്യമാണ് എന്താണ് അനുബന്ധ ZL അത് ഇതാണ് അതിനാൽ ഇംപെഡൻസിന്റെ അൺനോൺ മൂല്യം നിങ്ങൾക്ക് കണ്ടെത്താനാകും